ഇന്നത്തെ മൊഡ്യുളിന്റെ അവസാനത്തെ ഭാഗത്തു നമ്മൾ ഈ സിദ്ധാന്തങ്ങളുടെ സാമാന്തരങ്ങൾ നോക്കാം അപ്പോൾ വളരെ കഠിനമായ ഭാഗം എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഈ സിദ്ധാന്തങ്ങളെ ഉപയുക്തമാക്കാം കൃത്യമായ എലമെന്റ് മാർഗത്തിലെ വളരെ പ്രധാനപെട്ട ഭാഗം ഭാഗങ്ങളുടെ ഇന്റഗ്രേഷൻ ആണ് ശെരി അപ്പൊ നമുക്കിനി നിങ്ങൾ പത്താം ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം സ്കാലർ ഫങ്ക്ഷന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്റഗ്രേഷൻ ആണ് ശെരി അപ്പൊ ഇവിടെ രണ്ട് ഫങ്ക്ഷൻ എടുക്കാം ഉം ഉം ഒരു വേരിയബിളിന്റെ രണ്ട് ചെറിയ ഫങ്ക്ഷൻസ് നിങ്ങൾ ഇവിടെ പ്രോഡക്റ്റ് നിയമം ഉപയോഗിക്കണം അത് ആണ് എല്ലാവർക്കും ഇതറിയാം അല്ലെ ഇനി എനിക്കിതിനെ ഇന്റഗ്രേഷൻ ചെയ്യണം എങ്കിൽ ഞാൻ a ക്കും b ക്കും ഇടയിൽ ഇന്റഗ്രേഷൻ നടത്തുകയും പദങ്ങൾ വീണ്ടും അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഉള്ള പദം ഇതാണ് ശെരിക്കും ഇത് നിങ്ങൾക്ക് വളരെ പരിചിതമാണ് അല്ലെ ഇതാണ് നിങ്ങളുടെ പാതയിലൂടെ ഉള്ള ഇന്റഗ്രേഷൻ അത് ഇങ്ങനെ എഴുതാം മൈനസ് ഇന്റഗ്രൽ ab ആദ്യം ഫങ്ക്ഷന്റെ ഡെറിവേറ്റിവ് രണ്ടാമത്തെ ഫഗ്ഷന്റെ ഇന്റഗ്രൽ dx അല്ലെ ഇത് നിങ്ങൾ ഹൈ സ്കൂളിൽ കണ്ടട്ട് ഉണ്ടാവും ഈ കോഴ്സിൽ നമ്മൾ ഇന്റഗ്രഷനെ ഒന്നിലധികം ഡൈമെൻഷനിൽ തരംതിരിക്കുന്നു ഞാൻ ഒന്നിലധികം ഡൈമെൻഷനുകളിലേക്ക് പോവുമ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഞാൻ ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ പുതുക്കാൻ നോക്കും ഞാൻ ഇനി ആ രേഖയിലൂടെ ഇന്റഗ്രേഷൻ നടത്തില്ല ഞാൻ ഒരു നീണ്ട വ്യാപ്തമോ ഉപരിതലമോ ഇന്റഗ്രേറ്റ് ചെയ്യും അല്ലേ ഇവിടെ ആദ്യമായി ഞാൻ ഒരു സ്കെലാർ ഫങ്ക്ഷൻ f ഉം വെക്ടർ ഫങ്ക്ഷൻ A യും തിരഞ്ഞെടുക്കുന്നു ഇനി ഇവിടെ വെക്ടർ കാൽകുലസിനെ പറ്റി എന്താണ് പ്രോഡക്റ്റ് നിയമം പറയുന്നത് എന്നു നോക്കാം അപ്പോൾ ഇതൊരു പ്രോഡക്റ്റ് നിയമം ആണ് എനിക്ക് ഇവിടെ രണ്ട് വേരിയബിളുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് ഉണ്ട് മാത്രമല്ല ഇതൊരു വെക്ടറും ആണ് അപ്പൊ ഞാൻ ഒരു ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ പോകുന്നു അത് നിയമപരമായ ഒരു കാര്യം ആണ് ഇത് കാണാൻ കുറച്ചു പ്രശനം പിടിച്ച അവതരണം ആയി തോന്നാം പക്ഷെ കമ്പ്യൂറ്റേഷണൽ എലെക്ട്രോമാഗ്നെറ്റിക്സിൽ ഇത് ഇടക്ക് സംഭവിക്കാറുണ്ട് അപ്പൊ ശെരി ഇവിടെ പ്രോഡക്റ്റ് നിയമം പറയുന്നത് ആദ്യം ഫങ്ക്ഷൻ രണ്ടാമത്തേതിന്റെയും രണ്ടാമത്തെ ഫങ്ക്ഷൻ ആദ്യത്തേതിന്റെയും ഡെറിവറ്റീവ് ആണ് എന്നു നിങ്ങൾക്കിത് പരിശോധിക്കാൻ എളുപ്പത്തിൽ എന്നി ഘടകങ്ങൾ എടുക്കുക ഇതിനെ ഡെറിവേറ്റിവിന്റെ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു നോക്കുക നിങ്ങൾ അതെ കാര്യം തന്നെ ലഭിക്കും പക്ഷെ ഒന്ന് പുനരാഖ്യാനം നടത്താൻ ആദ്യം ഫങ്ക്ഷൻ എടുക്കുക അതിനെ രണ്ടാമത്തേതിന്റെ ഡെറിവേറ്റീവിന്റെ പുറമെ കൊണ്ട് വരിക രണ്ടാമത്തെ ഫങ്ക്ഷനും ആദ്യം ഫങ്ക്ഷനും ഇവിടെ പ്രശ്നം എന്തെന്നാൽ എനിക്ക് ഉത്പന്നത്തെ കൈകാര്യം ചെയ്യണം അല്ലേ അപ്പോൾ ഞാൻ ഇവിടെ f എടുത്താൽ അതൊരു സ്കാലർ ആണ് ഞാൻ ഇതിനെ സ്കാലർ ഉപയോഗിച്ച് ഗുണിക്കുന്നു അല്ലേ അപ്പോൾ ഇത് സ്കാലർ A ഡോട്ട് ഇടതു കൈ വശം രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രൈഡക്റ്റ് ആണ് അത് സ്വാലർ ആയി മാറുന്നു അതെ ഇതൊരു നിയമപരമായ കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തത് ശെരിയായ പ്രോഡക്റ്റ് നിയമം ആണോ എന്നു പരിശോദിക്കാം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ മുഴുവൻ ഇടതു കൈ വശവും എടുത്ത് ഒരു അടഞ്ഞ വ്യാപ്തത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഇതൊരു അടഞ്ഞ ഉപരിതലം V ആണ് അതിന് പുറമെ ഉള്ളത് ഉപരിതലം S അല്ലെ നമ്മൾ നമ്പർ പാടിച്ചു ഇങ്ങനെ ഒരു ഇന്റഗ്രലിനെ നമ്മൾ എന്താണ് ചെയ്യുക എന്നു ഇതിന്റെ ഇന്റഗ്രകഷൻ വ്യതിയാനം ഉള്ള ഒന്നിന്റേതാണ് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ഏത് സിദ്ധാന്തത്തിൽ ആണ് കണ്ടത് ഗോസ്സ് സിദ്ധാന്തം അല്ലെങ്കിൽ ഡൈവേർജൻസ് സിദ്ധാന്തം അല്ലേ അതായത് ഇത് ആ വെക്ടറിന്റെ പുറമേക്കുള്ള ഫ്ലക്സ് ആണ് ഏതാണാ വെക്ടർ അപ്പോൾ അതാണ് എന്റെ ഡൈവേർജൻസ് സിദ്ധതത്തിലെ പക്ഷെ ഇത് ഇടത് കൈ വശത്തു മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കു ഞാൻ ഇവിടെ പകരം വലതു കൈ വശം കൂടി ചേർക്കുന്നു ഇനി എന്ത് സംഭവിക്കുന്നു എന്നു നോക്കാം ഞാൻ വലത് കൈ വശം ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും ഇവിടെ ഉള്ള ഉപരിതലം അതുപോലെ തുടരും അപ്പോൾ ഇവിടെ ഉള്ള ആദ്യം പദം ഇതാണ് ഇത് വ്യാപ്തതിനു മുകളിൽ ചെയ്ത ഇന്റഗ്രേഷൻ പോലെയാണ് അല്ലേ രണ്ടാം പദമായ വരുന്നത് വലത് വശത്തു ആണ് രണ്ടും വോളിയം ഇന്റഗ്രലുകൾആണ് ഇത് സർഫേസ് ഇന്റഗ്രലും ഞാൻ ഇതിനെ പദം 1 എന്നും പദം 2 എന്നും എഴുതി പദം 1 ഞാൻ ഇടതും പദം 2 വലതും എഴുതി നിങ്ങൾക്ക് മറ്റ് രീതിയിലും എഴുതാം ഇവിടെയുല്ല പദം 2 ഉം അവുടെയുള്ള പദം 1 ഉം നമ്മൾ പരിഹരിക്കാൻ സ്രാണിക്കുന്ന പ്രശ്നത്തെ ആശ്രയിച്ചാണ് ഉള്ളത് എന്തുകൊണ്ടാണ് ഇത് സൌകര്യപ്രദമായത് ഇവിടെ വ്യാപ്താവും ഉപരിതലവും അടഞ്ഞിരിക്കുന്നു ഇവിടെ പറയുന്നത് f ന്റെയും A യുടെയും ഉപരിതല മൂല്യമാണ് ഇവിടെ വോളിയം ഇന്റഗ്രൽ ഇല്ല അതിനാൽ ഈ പദം എലെക്ട്രോമാഗ്നിറ്റിസിൽ അതിർഥി നിർണയിക്കുന്ന അവസ്ഥകൾ സ്ഥിതീകരിക്കുന്നത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു അതായത് ഇവിടെ ആണ് അതിർതിയുമായി ബന്ധപ്പെട്ട കണ്ടിഷൻസ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊരു വോളിയം ഇന്റഗ്രൽ ആണ് മാറ്റിരു കാര്യം ഉള്ളത് നിങ്ങൾക്ക്ഇതാണ് അതായത് ഞാൻ A വെക്ടർ ഫീൽഡ് എടുത്ത് അതിന്റെ ഡെറിവേറ്റിവ് കാണണം പക്ഷെ ഇവിടെ വന്ന മാറ്റാം എന്തെന്നാൽ ഞാൻ A യുടെ ഡെറിവേറ്റിവുകൾ ഒന്നും തന്നെ എടുത്തില്ല A മാത്രം ആണ് എടുത്തത് A ഒരു വളരെ പ്രശ്നം പിടിച്ച ഫങ്ക്ഷൻ ആയതിനാൽ ഞാൻ അതിന്റെ ഡെറിവറ്റീവ് എടുക്കാൻ മുതിർന്നില്ല ശെരി ഇപ്പോൾ ഞാൻ A യിൽ നിന്നും f ഇലേക്ക് ഒരു ഡെരിവറ്റിവ് മാറ്റി നിങ്ങൾക്ക് അതിനെ പറ്റി ചിന്തിക്കാം അതായത് ഭാഗങ്ങളുടെ ഇന്റഗ്രേഷൻ എനിക്ക് ഒരു ഉപരിതല പദം തന്നു മാത്രമല്ല ഒരു ഡെറിവേറ്റിവും കൈമാറ്റം ചെയ്തു ഇത് നമ്മൾ ഈ കോഴ്സിൽ ഇനി ഒരിക്കൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഫൈനൈറ്റ് എലമെന്റ് ഇൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇവിടെ ഒരു വെക്ടർ കാൽകുലസിന്റെ കുറച്ചു ഐഡന്റിറ്റികൾ ഉണ്ട് ഉദാഹരണം എന്നത് ഏതൊരു f സ്കാലർ ഫങ്ക്ഷനും ആകാം വീണ്ടും ഇത് തെളിയിക്കാൻ വളരെ എളുപ്പം മാർഗങ്ങൾ ഉണ്ട് എങ്ങനെ അത് ചെയ്യാം ഇപ്പോൾ നമുക്ക് എന്ന പദമുണ്ട് ഞാൻ ഇത് ഇങ്ങനെ എഴുത് അല്ലേ ഞാൻ ഇനി വെക്ടറിന്റെ ട്രിപ്പ്പിൾ പ്രോഡക്റ്റുംക്രോസ്സ് പ്രോഡക്റ്റും എടുക്കാൻ പോകുന്നു അപ്പോൾ ഇത് ആവും അതാണ് നമ്മൾ ആദ്യം എഴുതിയത് അതായത് പാർഷ്യൽ ഡെറിവേറ്റിവ് y അല്ലെ ഇനി നമുക്ക് ആദ്യം x ഘടകത്തെ നോക്കാം അപ്പോൾ ഇത് എന്താണ് അതായത് ഞാൻ രണ്ട് പദങ്ങൾ ആണ് ചെയ്യാൻ പോകുന്നത് ശെരി ഇനി നമ്മൾ ഈ പ്രയോഗം ഇവിടെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഡബിൾ ഡെറിവേറ്റിവുകളും സെക്കന്റ് ഓർഡർ ഡെരിവേറ്റിവുകളും ഉണ്ട് പക്ഷെ ഇത് ഒരേപോലെയാണ് കാൽകുലസിൽ ഒരു സിദ്ധാന്തം ഉണ്ട് അതായത് നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഫങ്ക്ഷന് ഡിഫറെൻസിയേഷൻ ഒരു പ്രശ്നമല്ല ഇത് നമുക്ക് മിശ്ര ഡെറിവറ്റിവുകളുടെ കാര്യത്തിൽ നോക്കാം അവയുടെ ക്രമം പ്രശ്നമാകുന്നില്ല അപ്പോൾ ഈ രണ്ട് പദങ്ങൾ ഒന്നും പൂജ്യവും ആകുന്നു ശെരി ഇപ്പോൾ ഇതേ കാര്യം തന്നെയാണ് x ഘടകത്തിനും സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഇത് y ഇൽ ആയാലും z ഇൽ ആയാലും ചെയ്തു നോക്കാം അത് 0 0 0 ആയിരിക്കും അതായത് നമുക്ക് കിട്ടുന്നഗ് ഒരു 0 വെക്ടർ ആയിരിക്കും ഇത് സൂചിപ്പിക്കുന്നത് ഗ്രേഡിയെന്റിന്റെ ചുരുൾ 0 ആയിരിക്കും എന്നാണ് അല്ലേ അടുത്തത് ചുരുളിന്റെ വ്യതിയാന സിദ്ധാന്തം അത് അതും 0 ആയിരിക്കും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കണക്കുകൂടാനായി ഒരോ പദവും എടുക്കുക നിങ്ങൾക്ക് 0 തന്നെ ലഭിക്കും വീണ്ടും ഈ തെളിവ് സ്വതന്ത്രമായ മിശ്ര ഡെറിവറ്റീവ്നെ ആശ്രയിച്ചിരിക്കുന്നു അതായത് ഇത് പൂജ്യം ആകുന്നു വെക്ടർ ട്രിപ്പ്പിൾ പ്രോഡക്റ്റ് ആണ് ഇത് നിങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ചു കാണും ഇങ്ങനെ ഇത് നമുക്ക് സാമാന്യവൽക്കരിക്കാം മാത്രമല്ല ബീജംഗണിത ത്തിന്റെ കുറച്ചു അളവ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നുണ്ട് ഈ പദം നമ്മൾ പല തവണ എൻകൌണ്ടർ ചെയ്യാം ഇതിനെ ആണ് ലാപ്ലാസിയൻ ഓപ്പറേറ്റർ എന്നു പറയുന്നത് അല്ലെ അതായത് ഡെൽ ന്റെ വർഗം ആണ് ലാപ്ലാസിയൻ ഓപ്പറേറ്റർ ഇറ്ഗ് എഞ്ചിനീയറിങ്ങിൽ പാർഷ്യൽ ഡിഫെറെൻഷ്യൽ സമവാക്യം ഉള്ളിടത്തെല്ലാം കാണാൻ സാധിക്കും ചുരുളും വ്യതിയാനവും കൃത്യമാണെങ്കിൽ A എന്ന വെക്ടർ ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിദ്ധാന്തം തീർത്തും ഒരു സ്ഥിരമായ സംഖ്യയെ ആശ്രയിച്ചിരിക്കുന്നു അതായത് നിങ്ങൾ എന്നോട് ഇരി വെക്ടർ ഫീൽഡിന്റെ ചുരുളും വ്യതിയാനവും പറയുകയാണെങ്കിൽ വെക്ടർ ഫീൽഡ് ഒരു സ്ഥിരമായിരിക്കും കാരണം ഇതെല്ലാം ഡെറിവേറ്റിവ് ഓപ്പറേഷനുകൾ ആണ് ഞാൻ ഇതിനോടൊപ്പം ഏതെങ്കിലും സ്ഥിരമായ സംഖ്യ കൂട്ടിയാൽ അത് അതിജീവിക്കില്ല അതായത് ഇത് ഇലക്ട്രോമഗ്നറ്റിക്സിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഇത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അവസാന ഘട്ടത്തിലെ ചെറിയ ഉപയോഗങ്ങളിലേക്ക് ആണ് ഇത് നമല പഠിച്ചതിൽ നിന്ന് ഒരു സാധാരണ കർവിലേക്ക് നമ്മെ എത്തിക്കുന്നു അതായത് അതിർദി വ്യവസ്ഥകൾ പഠിക്കാനായി ഉപയോഗിക്കാവുന്ന വളരെ ഉപയോഗപ്രദമായ ഒരു മാർഗമാണ് ഇത് നമുക്ക് സാധാരണക്കായി ഒരു സമവാക്യം കണ്ടെത്തണം അതിനാൽ ഞാൻ സിമ്പിൾ ആയി y x എന്ന ഒരു ഫങ്ക്ഷൻ എടുക്കുകയാണ് അതായത് ഇതിനെ എന്നെഴുതി ഇത് ഏത് രീതിയിൽ ഉള്ള ഫങ്ക്ഷനും ആവാം മാത്രമല്ല എനിക്ക് വേണ്ടത് ഒരു നോർമൽ ആണ് ഇവിടെയുള്ള ഈ കർവിന് ഉതകുന്ന ഒരു നോർമൽ ആണ് വേണ്ടത് അല്ലെ അതായഗ് ഇത് നേരെയുള്ള ഒരു മാർഗമായി യഥാർഥ്യത്തിൽ തോന്നുന്നില്ല ഇവിടെ ഗ്രേഡിയന്റ് എന്നെ എങ്ങനെ ആണ് സഹായിക്കാൻ പോകുന്നത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുവച്ചാൽ ഞാൻ പുതിയൊരു എന്ന ഫങ്ക്ഷൻ പരിചയപെടുത്തുന്നു ഞാൻ അതിനെ ഇങ്ങനെ എഴുതി പക്ഷെ ഞാൻ ഇത് വരെ അതിൽ പുതുതായി ഒന്നും ചെയ്തില്ല അതിനാൽ ഇവിടെയുള്ള ഈ കർവ് എന്തായിരിക്കും ഞാൻ ഇത് തുല്യമാക്കാൻ ചേർത്ത അതെ കാര്യം ആയിരിക്കുമോ ഞാൻ ഞാൻ ഇതിനു 0 എന്ന മൂല്യമാണ് നൽകിയത് എന്നു കരുതുക അങ്ങനെ എങ്കിൽ എന്നാവുമോ അതോഇങ്ങനെയോ അതിനാൽ ഞാൻ ഇതിനെ g എന്ന പുതിയ ഒരു ഫങ്ക്ഷൻ ആക്കി നിങ്ങൾ ചിന്തിക്കുന്നത് നജ്ൻ പറയുന്നത് k സ്ഥിരമായ നെ പറ്റി ആണെന്നും ആണ് അല്ലെ ഈ കർവിന് എന്ത് സംഭവിച്ചു കാണും അത് വലത്തോട്ട് നീങ്ങി അല്ലേ അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ ആണ് ലഭിച്ചത് അല്ലെ അതായത് അവിടെ കോൺടൂറുകളോ ലെവൽ ഫങ്ക്ഷനുകളോ ഉണ്ടാവാം ഇനി ഞാൻ ചോദിക്കട്ടെ ഇവിവിടെ ഈ ബിന്ദുവിൽ ഈ തൊടുവരയിലുള്ള വെക്ടർ ഏതാണ്ഓക്കേ നോക്ക് എനിക്ക് ഇവിടെ ഇരുന്നു ഫങ്ക്ഷൻ ഉണ്ട് നമുക്കറിയാം കർവിന്റെ ചെരിവ് കാണിക്കുന്നത് ഡെറിവേറ്റിവ് ആണ് അല്ലെ അതായത് ഈ വെക്ടർ V എന്നത് ഇവിടെ ഉള്ള ഈ അളവിലാണ് കാണിക്കുക അല്ലെ നിങ്ങൾക്ക് കാണാം ഞാൻ y ഘടകത്തിന്റെയും x ഘടകത്തിന്റെയും റേഷ്യോ എടുത്താൽ എന്താണ് ലഭിക്കുക അതാണ് ഈ ഫങ്ക്ഷന്റെ slope അപ്പോൾ ഇവിടെ ആൽഫ കൊണ്ട് ഗുണിചിരിക്കുന്നതായി കാണാം എനിക്ക് വേണ്ടത് ഇവിടെ ഉള്ള തൊടുവര യിലൂടെ യുള്ള വെക്ടർ ആണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത് ആണ് ക്ഷമിക്കണമ് ഇതാണ് അതായത് ഇവിടെ ഏത് ദിശയിലാവാം ഇത് നീങ്ങുന്നത് കൂടുതൽ ലാംബമായ രീതിയിൽ അല്ലേ അതിനാൽ ഇത് മാക്സിമം വ്യത്യാസം ഉണ്ടാക്കുന്നു അത് കണ്ടെത്താൻ ശ്രമിക്കാം ഇറ്ഗ് കുറച്ചു നിഗൂഢമായി തോന്നുന്നില്ലേ എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത് നമുക്ക് വേഗം അത് മനസിലാക്കാം കണക്ക് കൂട്ടം ഓക്കേ ഇപ്പോൾ ഇൽ g ഒരു സ്കാലർ ആണ് അങ്ങനെ എങ്കിൽ എന്തായിരിക്കാം വിദ്യാർത്ഥി വെക്ടർ അതെ വെക്ടർ ആണ് അവൻ ഘടകവും ആണ് ശെരി ഇനി നമുക്ക് ഇതിന്റെ x ന് അനുബന്ധമായ ഡെറിവറ്റിവ് എടുക്കാം എന്തായിരിക്കാം ലഭിക്കുക കാരണം y ഒരിക്കലും x നെ ആശ്രയിച്ചല്ല ഇരിക്കുനത് ഞാൻ y ക്ക് അനുബന്ധിച്ചുള്ള ഡെറിവേറ്റിവ് എടുത്താലോ എന്തായിക്കാം ലഭിക്കുക വിദ്യാർത്ഥി 1 1 ഓക്കേ എങ്കിൽ z ന് അനുബന്ധിച്ചാനെങ്കിലോ 0 അല്ലെ അതയത് നമുക്ക് ഈ 0 ഒഴിവാക്കാം കാരണം നമ്മൾ രണ്ട് ഡൈമെൻഷൻസിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഓക്കേ ഇനി ഇതാണ് എന്റെ ഇത് v ഇനി ഇതെന്താണെന്ന് കണ്ടെത്തു നമുക്ക് എന്ത് കിട്ടി വിദ്യാർത്ഥി 0 അതെ 0 അതായത് നമ്മൾ കണ്ടെത്തിയത് എന്താണെന്നാൽ എന്ന മൂല്യം ഈ തൊടുവരയിൽ സാധാരണമാണ് അതയത് ഇവിടെ ഉള്ള ഈ കർവ് തന്നുകൊണ്ട് ഞാൻ ഒരു രണ്ട് ഡിമെൻഷണൽ ഫങ്ക്ഷൻസ് g ഉണ്ടാക്കി ഞാൻ അതിന്റെ ഗ്രേഡിയന്റ് ആണെന്ന് കണ്ടെത്തി മാത്രമല്ല n ന്റെ ദിശയും കട്ടി തന്നു അതായത് ഇത് ഗ്രേഡിയന്റിന്റെ ഭൌതികമായ വ്യാഖ്യാനം ആണ് ഫഗ്ഷന്റെ പരമാവധി മാറ്റത്തെ ഇത് സൂചിപ്പിക്കുന്നു ഇതും ഇലക്ട്രോമഗ്നറ്റിക്സിൽ അതിർത്തി വ്യവസ്ഥയെ മനസിലാക്കാൻ സഹായിക്കുന്നു അങ്ങനെ നമ്മുടെ ഈ മൊഡ്യുൾ അവസാനിച്ചിരിക്കുന്നു റഫറൻസിനായി ഞാൻ നിർദേശിക്കുന്നത് ഗ്രിഫിത്തിന്റെGrifths ഇൻട്രോഡക്ഷൻ ടു എലെക്ട്രോഡൈനാമിക്സ് എന്ന ബുക്കിന്റെ ആദ്യം പാഠം ആണ്